ഹലോ സുരക്ഷിത സിസ്റ്റം എഞ്ചിനീയറിംഗിനായുള്ള കോഴ്സിലെ ഡെമോൺസ്ട്രേഷനിലേക്ക് സ്വാഗതം മുമ്പത്തെ ഡെമോയിൽ നമ്മൾ ഒരു ബഫർ Overflow ചെയ്യുകയും ഒരു പേലോഡ് എക്സിക്യൂട്ട് ചെയ്യുകയും യഥാർത്ഥത്തിൽ ഒരു ഷെൽ സൃഷ്ടിക്കുകയും ചെയ്തു ഒരു ആക്രമണകാരി അത്തരമൊരു ഷെൽ സൃഷ്ടിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ആപ്ലിക്കേഷനെ അട്ടിമറിക്കാൻ സാധിക്കുമെന്നും അത് നടപ്പിലാക്കുന്നതിൽ നിന്ന് ആക്രമണകാരിക്ക് ആ ഷെല്ലിൽ നിന്ന് സാധ്യമായതെന്തും പ്രവർത്തിപ്പിക്കാൻ കഴിയും എന്നും നമ്മൾ കണ്ടു മറ്റ് വീഡിയോകളിൽ സ്റ്റാൻഡേർഡ് സിസ്റ്റങ്ങളിൽ നിരവധി പ്രതികൂല നടപടികൾ നടപ്പിലാക്കിയതായി നമ്മൾ കണ്ടു വാസ്തവത്തിൽ നമ്മൾ മൂന്ന് വ്യത്യസ്ത കൌണ്ടർ മെഷറുകളിലേക്ക് നോക്കിയിരുന്നു ഒന്ന് NX ബിറ്റ് അല്ലെങ്കിൽ WX അല്ലെങ്കിൽ X ബിറ്റ് ആണ് അവ ഇത് എല്ലാ ഇന്റൽ AMD പ്രോസസറുകളിലും മൈക്രോകൺട്രോളറുകളിലും ഉണ്ട് നമ്മൾ കണ്ടത് മെമ്മറിയിലുള്ള ഒരു പേജ് എക്സിക്യൂട്ടബിൾ അല്ലെങ്കിൽ എഴുതാൻ കഴിയുന്നതാണെന്ന് ഈ ബിറ്റ് ഉറപ്പാക്കും സ്റ്റാക്കിലെ ഉദാഹരണത്തിൽ നിന്ന് സ്റ്റാക്കിൽ നിന്ന് കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയില്ലെന്ന് ഈ ബിറ്റ് ഉറപ്പാക്കും എന്ന് കണ്ടു കൌണ്ടർ മെഷറുകൾ നടപ്പിലാക്കുന്ന ചില ആധുനിക കംപൈലറുകൾ കാനറികൾ ഉപയോഗിക്കുന്നു ഓരോ സ്റ്റാക്ക് ഫ്രെയിമിലുമുള്ള കാനറികൾ ഒരു ബഫർ കവിഞ്ഞൊഴുകുന്നുവെന്നും ആ സ്റ്റാക്ക് ഫ്രെയിമിനെ മറികടക്കുന്നുവെന്നും കണ്ടെത്തും ഇത് ഫംഗ്ഷൻ റിട്ടേൺ സമയത്ത് പിടിക്കപ്പെടുകയും എക്സിക്യൂഷന്റെ അട്ടിമറി തടയുകയും ചെയ്യും നമ്മൾ നോക്കിയ മൂന്നാമത്തെ കാര്യം അഡ്രസ് സ്പേസ് Layout റാൻഡമൈസേഷൻ അല്ലെങ്കിൽ ASLR ആണ് ഇത് ഒരു കൌണ്ടർ മെഷറായിരുന്നു ഒരു പ്രോഗ്രാമിലെ വിവിധ മൊഡ്യൂളുകളുടെ സഥാനങ്ങൾ ഓരോ റണ്ണിലും ക്രമരഹിതമായി ക്രമീകരിച്ചിരിക്കുന്നു എന്നതാണ് അതിനാൽ ആക്രമണകാരിക്ക് എവിടെയാണ് അട്ടിമറി സംഭവിക്കേണ്ടതെന്നും ഏത് സ്ഥലത്തേക്കാണ് മടങ്ങേണ്ടതെന്നും വ്യക്തമാക്കാൻ കഴിയില്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പേലോഡ് ഉള്ള വിലാസം യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ ആക്രമണകാരിക്ക് ബുദ്ധിമുട്ടായിരിക്കും ഈ മൂന്ന് കൌണ്ടർ മെഷറുകൾ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നതിന് ബഫർ ഓവർഫ്ലോയെക്കുറിച്ച് നമ്മൾ എടുത്ത മുൻ ഉദാഹരണം നോക്കുന്നു മുമ്പത്തെ വീഡിയോയിൽ ചെയ്ത അതേ ഉദാഹരണമാണ് testcode മുമ്പത്തെ വീഡിയോയിൽ കണ്ടതുപോലെ ഇതിൽ രണ്ട് ഫംഗ്ഷനുകളും ഉൾക്കൊള്ളുന്നു നമ്മൾ ലോക്കൽ ബഫറിനെ ഓവർ ഫ്ലോ ചെയ്യുകയും അതിലെ ദുർബലത ഉപയോഗിച്ചു കൊണ്ട് സ്ട്രിംഗ് കോപ്പി എക്സിക്യൂട്ട് ചെയ്യാൻ ഷെൽ സൃഷ്ടിക്കുന്ന ഒരു പേലോഡിനെ പ്രേരിപ്പിക്കുന്നു നമ്മൾ എടുക്കുന്ന ഉദാഹരണത്തിൽ ഈ ആർഗ്യുമെന്റ് ഉപയോഗിച്ച് ഈ കോഡ് പ്രവർത്തിപ്പിക്കാൻ കഴിയും എന്ന് കാണാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഷെൽ കോഡ് അടങ്ങുന്ന പേലോഡുള്ള E3 ഫയലാണ് ഇവിടെ പാസ് ചെയ്യുന്നത് ഇത് പ്രവർത്തിപ്പിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അത് വിജയകരമായി ഒരു ഷെൽ സൃഷ്ടിക്കുന്നു എന്നതാണ് അതിനാൽ എല്ലാ കൌണ്ടർ ണ്മെഷറുകളും അപ്രാപ്തമാക്കിയതിനാൽ ഈ പ്രോഗ്രാം പ്രവർത്തിക്കുന്നു അതിനാൽ നമ്മൾ ASLR ഉം കാനറികളും അതുപോലെ തന്നെ സ്റ്റാക്ക് പരിരക്ഷയും പ്രവർത്തനരഹിതമാക്കി നമ്മൾ ഇവിടെ ഇവ ഓരോന്നും പ്രാപ്തമാക്കുകയും തുടർന്ന് ഈ ഷെൽ കോഡ് എങ്ങനെ തടയുന്നുവെന്ന് കാണുകയും ചെയ്യും നമ്മൾ ആദ്യം നോക്കുന്നത് കാനറികളാണ് ഇപ്പോൾ കാനറി default ആയി കംപൈലർ ചേർക്കുന്നു മുമ്പ് നമ്മൾ ചെയ്തത് ഈ കംപൈലർ പാരാമീറ്റർ fno stack protector സ്പെസിഫൈ ചെയ്തതാണ് അത് യഥാർത്ഥത്തിൽ കാനറികളെ അപ്രാപ്തമാക്കും ഇപ്പോൾ നമ്മൾ കാനറികൾ എനേബിൾ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം അതിനാൽ fno stack protector എന്നതിനു പകരം നമ്മൾ ഇത് f stack protector എന്നാക്കി മാറ്റും അത് എല്ലാ പ്രവർത്തനങ്ങളിലും കാനറികൾ ഉണ്ടായിരിക്കാൻ പ്രേരിപ്പിക്കുന്നു നമ്മൾ കോഡ് വീണ്ടും കംപൈൽ ചെയ്യുമ്പോൾ ഫംഗ്ഷനുകളിൽ കാനറികൾ ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ അതെ പേലോഡ് നൽകി എക്സിക്യൂട്ടബിൾ റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റാക്ക് മെഷീൻ കണ്ടെത്താനാകും ഇവിടെ സംഭവിച്ചത് സ്റ്റാക്കിലെ ഓരോ ഫംഗ്ഷനിലും കാനറികൾ ചേർത്തത് കാരണം ബഫർ ഓവർഫ്ലോ ആവുകയും strcpy കണ്ടെത്തുകയും ഈ കാനറികൾ കണ്ട് പിടിക്കുകയും ചെയ്യുന്നു അതിനാൽ യഥാർത്ഥത്തിൽ അട്ടിമറി സംഭവിക്കുന്നതിന് മുമ്പ് പ്രോഗ്രാം ഒരു സ്റ്റാക്ക് സ്മാഷിംഗ് ഡിറ്റക്ഷൻ ഉപയോഗിച്ച് അവസാനിക്കുന്നു നമുക്ക് അപ്രാപ്തമാക്കിയ കാനറികൾ വീണ്ടും ചേർക്കാം അടുത്തതായി നമ്മൾ നോക്കുന്നത് WX അല്ലെങ്കിൽ X ബിറ്റ് ആണ് ഇപ്പോൾ എല്ലാ ലിനക്സ് സിസ്റ്റത്തിലും default ആയി WX അല്ലെങ്കിൽ X ബിറ്റ് എനേബിൾ ചെയ്തിട്ടുണ്ട് ഈ z execstack എന്ന കമാൻഡ് ഉപയോഗിച്ച് WX അല്ലെങ്കിൽ X ക്രമീകരണം അപ്രാപ്തമാക്കുക എന്നതാണ് നമ്മൾ മുമ്പ് ചെയ്തത് ഈ പ്രത്യേക കമാൻഡ് ലൈൻ പാരാമീറ്റർ നീക്കം ചെയ്ത് പ്രോഗ്രാം മുമ്പത്തെപ്പോലെ കംപൈൽ ചെയ്ത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുന്നത് എക്സിക്യൂഷനെ അട്ടിമറിച്ച് പേലോഡ് സൃഷ്ടിക്കുന്നതിനുപകരം നമുക്ക് ഒരു സെഗ്മെന്റേഷൻ പിശക് ലഭിക്കും കാരണം ഈ പേലോഡ് ബഫറിനെ വിജയകരമായി ഓവർഫ്ലോ ചെയ്യുകയും അത് റിട്ടേൺ വിലാസം പരിഷ്കരിക്കുകയും ചെയ്യും കൂടാതെ ഫംഗ്ഷന്റെ മടങ്ങിയെത്തുമ്പോൾ അത് സ്റ്റാക്കിൽ നിന്ന് കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും ഇപ്പോൾ സ്ഥിരമായി ഈ പ്രത്യേക ഫംഗ്ഷന് അതിന്റെ സ്റ്റാക്ക് എക്സിക്യൂട്ടബിൾ അല്ലാത്തതിനാൽ പ്രോസസർ ഇത് നിയമ വിരുദ്ധമായ എക്സിക്യൂഷനായി കണ്ടെത്തി പ്രോഗ്രാം അവസാനിക്കുന്നു സ്റ്റാക്ക് എക്സിക്യൂട്ടബിൾ ആയി മാറുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് നമ്മൾ ഈ കമാൻഡ് ലൈൻ പാരാമീറ്റർ വീണ്ടും ഇടുകയും സ്റ്റാക്കിൽ നിന്ന് ഒരു പേലോഡ് റൺ ചെയ്യാൻ നമുക്ക് കഴിയുകയും ചെയ്യുന്നു നമ്മൾ പ്രധാനമായും കാനറികൾ മാത്രമല്ല എക്സിക്യൂഷന്റെ പരിശോധനയും disable ചെയ്യുന്നു സ്റ്റാക്കിൽ നിന്ന് നമ്മൾ ഈ കോഡ് വീണ്ടും റൺ ചെയ്യുന്നു കൂടാതെ രണ്ട് കൌണ്ടർമെഷറുകൾ അപ്രാപ്തമാക്കിയതിനാൽ നമുക്ക് സ്റ്റാക്ക് കിട്ടുന്നു അതിനാൽ ASLRന്റെ അന്തിമ കൌണ്ടർമെഷർ നോക്കാം ഇപ്പോൾ ലിനക്സ് സിസ്റ്റങ്ങളിലെ ASLRന്റെ സ്റ്റാറ്റസ് procsys kernel randomize va space എന്ന ഡയറക്ടറിയിൽ ഉള്ള randomize va space എന്ന ഫയൽ നിന്ന് ലഭിക്കും ഈ ഫയലിലെ 0 ന്റെ മൂല്യം ഈ സിസ്റ്റത്തിൽ ASLR അപ്രാപ്തമാക്കിയിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്നു ഈ പ്രത്യേക സിസ്റ്റത്തിൽ ASLRനെ പ്രാപ്തമാക്കുന്നതിന് താൽക്കാലികമായി നമ്മൾ ചെയ്യേണ്ടത് ഈ ഫയലിലെ ഉള്ളടക്കങ്ങൾ 1 2 അല്ലെങ്കിൽ 3 ലേക്ക് മാറ്റുക എന്നതാണ് ഈ മൂല്യം 3 ആയി മാറ്റുന്നുവെന്ന് നമുക്ക് പറയാം അതിന് നമുക്ക് sudo sh c "echo 3" എന്ന കമാൻഡ് ഉപയോഗിക്കാം അത് output proc sys kernel randomize va space ലേക്ക് റീഡയറക്ടു ചെയ്യുന്നു ഈ രീതിയിൽ നമ്മൾ randomize va space ന്റെ മൂല്യം 0 ൽ നിന്ന് 3 ആക്കി മാറ്റി ഫയലിലെ ഉള്ളടക്കങ്ങൾ ഫലം പ്രിൻറ് ചെയ്തു കൊണ്ട് ഇത് യഥാർത്ഥത്തിൽ മാറിയെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്തത് ASLR പ്രാപ്തമാക്കി എന്നതാണ് അതിനാൽ ഇത് പ്രാപ്തമാക്കുന്നതിലൂടെ പ്രോഗ്രാം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കാം അതെ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ട് അത് ആക്രമണത്തെ വിജയകരമായി തടഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും അതിനാൽ ASLR പ്രവർത്തനക്ഷമമാക്കിയതിനാൽ നമുക്ക് ഒരു സെഗ്മെൻറേഷൻ പിശക് ലഭിക്കുന്നു 0xffffcf70 എന്ന സ്ഥാനത്തേക്ക് നമ്മൾ ഓവർറൈറ്റ് ചെയ്ത റിട്ടേൺ അഡ്രസ് ഇനി സ്റ്റാക്കിൽ ഉണ്ടാകില്ല എന്നതാണ് കാരണം ക്രമരഹിതമാക്കൽ ഓരോ എക്സിക്യൂഷനിലും സ്റ്റാക്കിന്റെ സ്ഥാനം മാറുമെന്നും ഇത് ആക്രമണത്തെ തടയുമെന്നും ഉറപ്പാക്കും നന്ദി